ഇപ്പോൾ നമുക്ക് അവ പരിഹരിക്കാനുള്ള വ്യത്യസ്ത വഴികൾ നോക്കാം അതിനാൽ ഇവയെയാണ് നമ്മൾ ടെക്നിക്കുകൾ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ നോക്കുന്നു നിങ്ങൾക്ക് അവ പരിഹരിക്കാൻ കഴിയും ഒന്നുകിൽ ടൈം ഡൊമെയ്ൻപറയുക അല്ലെങ്കിൽ നിങ്ങൾ ഫോറിയർ ആശയങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവൃത്തി ഡൊമെയ്ൻ പരിഹരിക്കാം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവ എന്താണെന്ന് കാണാം അതായത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ഏത് രൂപത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കുക എന്നതാണ് അവ പരിഹരിക്കാനുള്ള മറ്റൊരു മാർഗം ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഫോം ഏത് രൂപമായിരുന്നു ഡിഫറൻഷ്യൽ ഫോം അല്ലെ അവ ഭാഗിക ഡിഫറൻഷ്യൽ സമവാക്യങ്ങളായിരുന്നു അതിനാൽ ആ ഡിഫറൻഷ്യൽ രൂപത്തിൽ എനിക്ക് അവയെ നേരിട്ട് ഭാഗികമായി പരിഹരിക്കാൻ കഴിയും മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളുടെ മറ്റൊരു പതിപ്പുണ്ട് അത് സമഗ്രമായ രൂപത്തിലാണ് അതിനാൽ നമുക്ക് അതിനെ അവിഭാജ്യ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യാനും അത് ശരിയായി പരിഹരിക്കാനും കഴിയും ഇപ്പോൾ ഏത് രീതിയാണ് ഉപയോഗിക്കേണ്ടത് ഇത് വളരെ പ്രധാനമാണ് ഈ കോഴ്സിന്റെ അവസാനം ഏത് രീതിയാണ് പ്രയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ജീവിതം ചുറ്റികയുള്ള ആളെപ്പോലെയാകും നിങ്ങൾക്ക് എല്ലാം ചുറ്റികയുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം ഒരു ആണി പോലെയാണ് നിങ്ങൾ കാണുക നിങ്ങൾ ഒരു സാങ്കേതികത ച്ചിട്ടുണ്ട് മറ്റൊരു സാങ്കേതിക വിദ്യകലും പഠിച്ചിട്ടില്ല അതിനാൽ നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കാത്ത എല്ലായിടത്തും നിങ്ങൾ പ്രയോഗിച്ചു അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ലളിതമായ ഉദാഹരണം തരാം എനിക്ക് ഒരു റഡാർഉണ്ടെന്ന് പറയാം ഇപ്പോൾ സാധാരണ റഡാറിൽ അവ ഒരൊറ്റ ഫ്രീക്വൻസി തരംഗത്തെ അയയ്ക്കുന്നു നമുക്ക് നമ്മുടെ എയർ ട്രാഫിക് കൺട്രോൾ റഡാർ പറയാം ഇത് ഒരു തരംഗം വിമാനത്തിൽ തട്ടി തിരിച്ചുവരികയാണ് അത് കണക്കുകൂട്ടുന്നതിലൂടെ സമയദൈർഘ്യം അല്ലെങ്കിൽ അത് എത്ര ദൂരമാണെന്ന് കണ്ടെത്താൻ നമുക്ക് എന്തെങ്കിലും പറയാം പക്ഷേ ഇത് ഒരൊറ്റ ആവൃത്തി അയയ്ക്കുന്നു ഇത് ഒരു ഫ്രീക്വൻസി അയയ്ക്കുകയാണെങ്കിൽ ഈ ഫോമിന്റെ സമയ ആശ്രിതത്വം നിങ്ങൾക്കറിയാമെങ്കിൽ d ഹരിക്കണം dt jഒമേഗയായി മാറുന്നു അപ്പോൾ എന്റെ എല്ലാ സമവാക്യങ്ങൾക്കും സ്പേഷ്യൽ ഡെറിവേറ്റീവുകൾ മാത്രമേയുള്ളൂ സമയ ഡെറിവേറ്റീവുകൾ പോയി ഡെറിവേറ്റീവുകൾ പോയ കാലം മുതൽ പ്രോ ജീവിതം എളുപ്പമായി സമയ ഡെറിവേറ്റീവുകളെക്കുറിച്ച് ഞാൻ വിഷമിക്കേണ്ടതില്ല jഒമേഗ ഒരു സ്ഥിരമായ സംഖ്യയായി മാറി ഞാൻ സ്പേസ് ഡെറിവേറ്റീവുകൾ മാത്രം കൈകാര്യം ചെയ്യണം അതിനാൽ ഒരൊറ്റ ഫ്രീക്വൻസി കേസിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ഫ്രീക്വൻസി ഡൊമെയ്ൻ രീതിയിൽ പ്രവർത്തിക്കുന്നത് എനിക്ക് നല്ലതാണ് കാരണം ജീവിതം കൂടുതൽ സങ്കീർണ്ണമാക്കുന്നത് മറുവശത്ത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള താൽക്കാലിക പ്രതികരണമുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ചില ക്ഷണികമായ കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് സ്വിച്ച് ഓണാക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് പറയട്ടെ എനിക്ക് വളരെ കുറച്ച് സമയം സിഗ്നലിംഗ് സമയം ലഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആവൃത്തിയുടെ ഉള്ളടക്കം എന്താണ് അത് ആവൃത്തിയിൽ വ്യാപിച്ചിരിക്കുന്നു ഫ്രീക്വൻസി ഡൊമെയ്നിൽ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വിവിധ ഒമേഗകൾ ഞാൻ പരിഹരിക്കേണ്ടതുണ്ട് തുടർന്ന് വിപരീത ഫൊറിയർ പരിവർത്തനം എടുത്ത് സമയ പ്രതികരണം നേടുക അതിനാൽ ഇത് നിങ്ങളുടെ മൂക്ക് ഈ രീതിയിൽ പിടിക്കുന്നത് പോലെയാണ് ടൈം ഡൊമെയ്ൻ രീതികൾ ബേധമായിരിക്കും സർക്യൂട്ട് സിമുലേഷൻ നിങ്ങൾ ഒരു സിഗ്നൽ ഓണാക്കുന്നുവെന്ന് പറയട്ടെ തരംഗം എങ്ങനെ പടരുന്നുവെന്നും അതുപോലുള്ള കാര്യങ്ങൾ ശരിയാണെന്നും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ അവിടെ നമ്മൾ നേരിട്ട് ടൈം ഡൊമെയ്നിൽ പ്രവർത്തിക്കും ക്ഷണികമായ പ്രതികരണങ്ങൾക്ക് ഇത് ഉദാഹരണമാണ് ഇപ്പോൾ അത് സമയത്തിനും ആവർത്തനത്തിനും ഇടയിലുള്ള രണ്ട് വ്യത്യസ്ത വഴികളാണ് മറ്റൊരു വശം ഡിഫറൻഷ്യൽ വേഴ്സസ് ഇന്റഗ്രൽ ആണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായി തോന്നുന്നില്ല പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് വ്യക്തമാകും പക്ഷേ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ചില സൂചനകളുണ്ട് അത് നമ്മൾ ഡിഫറൻഷ്യൽ ഫോം പറയുമ്പോൾ നോക്കാം ഉദാഹരണത്തിന് നമുക്ക് പറയാം എല്ലായിടത്തും ഉണ്ട് ഇത് സംഖ്യാപരമായി പരിഹരിക്കുകയാണെങ്കിൽഒരു ഡെറിവേറ്റീവ് a ഉണ്ടെങ്കിൽ നിങ്ങൾ അവബോധപൂർവ്വം എന്തു ചെയ്യും ഞാൻ ഒരു ഡെറിവേറ്റീവ് സമയം എന്നിവയെ പ്രതിനിധാനം ചെയ്യും പരിമിതമായ വ്യത്യാസങ്ങൾ അങ്ങനെയാണ് ഞാൻ ഒരു ഡെറിവേറ്റീവ് നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെയാണ് സ്പേഷ്യൽ ഡെറിവേറ്റീവ് ഞാൻ ഇത് സ്ഥലവും സമയവും വേർതിരിച്ചെടുക്കുമ്പോൾ ഒരു തരംഗം ഒരു പ്രത്യേക ഗ്രിഡിൽ സഞ്ചരിക്കുമ്പോൾ അത് ചിതറാൻ തുടങ്ങും നിങ്ങൾക്ക് തരംഗം വേണം ഞാൻ കമ്പ്യൂട്ടറിൽ അത് പരിഹരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഈ ഡെറിവേറ്റീവുകൾ വിശകലനപരമായി കണക്കാക്കാൻ കഴിയില്ല ശാരീരികമായി ഞാൻ ഇവിടെ നിന്ന് ഈ മുറിയുടെ അവസാനം വരെ അയയ്ക്കുന്നു അത് ഒരു തരംഗം പോലെ പോകുന്നു പക്ഷേ എനിക്ക് ഇത് സംഖ്യാപരമായി പരിഹരിക്കേണ്ടിവരുമ്പോൾ ഈ പരിമിത വിഭാഗങ്ങളുടെ സ്ഥലവും സമയവും വിച്ഛേദിക്കേണ്ടിവരും എനിക്ക് ഇത് അനന്തമായി ചെറുതാക്കാൻ കഴിയില്ല അല്ലാത്തപക്ഷം മെമ്മറി ആവശ്യകത അനന്തതയിലേക്ക് പോകും അതിനാൽ ഞാൻ കുറച്ച് പരിമിതമായ ദൂരം എടുക്കുന്നു ഞാൻ ഈ ഫീൽഡ് പ്രചരിപ്പിക്കുമ്പോൾ ഈ ഫീൽഡ് ഗണിതപരമായി ചിതറിക്കിടക്കാൻ തുടങ്ങുന്നത് ഈ കോഴ്സിൽ ഞങ്ങൾ കാണും ഭൌതികമായി അത് ഒരു ദിശയിലേക്കാണ് പോകുന്നത് എന്നാൽ ഗണിതശാസ്ത്രപരമായി ഈ വിവേചനാധികാരം കാരണം അത് നമുക്ക് ആവശ്യമില്ലാത്ത ചിതറിക്കിടക്കാൻ തുടങ്ങുന്നു അതിനാൽ ഒരു ഡിഫറൻഷ്യൽ രീതി അനുയോജ്യമല്ലാത്ത ഒരു ഉദാഹരണമായിരിക്കും അത് മറുവശത്ത് സമഗ്രമായ രീതികൾക്ക് അവയിൽ വളരെ മനോഹരമായ ഒരു സിദ്ധാന്തമുണ്ട് അത് തരംഗത്തെ ചിതറിക്കാൻ അനുവദിക്കാത്ത ഞങ്ങൾ പഠിക്കും എനിക്ക് ദീർഘദൂരങ്ങളിൽ പ്രചാരണമുണ്ടെങ്കിൽ അവിടെ ഞാൻ പറയുന്നു ഞാൻ സമഗ്ര സമവാക്യ രീതികളിലേക്ക് മാറണമെന്ന് ഒരു വെക്റ്റർ കാൽക്കുലസിൽ അവലോകന പ്രഭാഷണം കണ്ട നിങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് വ്യതിയാന സിദ്ധാന്തവും സ്റ്റോക്സ് സിദ്ധാന്തവും ശരിയാണ് അതിനാൽ നമുക്ക് വ്യതിയാന സിദ്ധാന്തം എഴുതാം അതിനാൽ വ്യതിയാന സിദ്ധാന്തം ഒരു വെക്റ്റർ ഫീൽഡിന്റെ ഫ്ലക്സ് വ്യതിചലനത്തിന് തുല്യമാണെന്ന് ഞാൻ പറയുന്നു ഈ വലത്തിന്റെ വോളിയം ഇന്റഗ്രൽ ആയതിനാൽ ഇത് അടച്ചിരിക്കുന്നു ഇപ്പോൾ ഞാൻ സമഗ്ര സമവാക്യ രീതികൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടെ നോക്കാം എനിക്ക് ഇവിടെ കുറച്ച് വോളിയം v ഉണ്ടെന്ന് പറയാം അതിനാൽ ചില വോളിയം വി ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ സമവാക്യങ്ങളുടെ സിസ്റ്റം സംഖ്യാപരമായി പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഇത് ചെറിയ dx dy dz dt ആയി മുറിക്കണം അതിനാൽ വലതുവശത്ത് ഞാൻ ഈ മുഴുവൻ വോളിയവും ചെറിയ സമചതുരകളായി മുറിക്കണം അതാണ് സംഭവിക്കുക ഇത് ഒരു 3D പ്രശ്നമാണ് എന്നാൽ ഇവിടെ ഇടതുവശത്തുള്ള അതേ കാര്യം പുറം ഉപരിതലത്തിൽ മാത്രമാണ് അതിനാൽ ഇത് ഇവിടെ ഒരു 2D പ്രശ്നമാണ് അതിനാൽ ഒരു കണക്കുകൂട്ടൽ കാഴ്ചപ്പാടിൽ ഒരു സമഗ്ര സമവാക്യ രീതിയിൽ എനിക്ക് ഇതുപോലുള്ള സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ഒരു വോളിയം ഇന്റഗ്രൽ ഒരു ഉപരിതല ഇന്റഗ്രൽ ആയി മാറ്റാൻ കഴിയും ഒരു നിശ്ചിത വോളിയത്തിന് ചെറിയ ചെറിയ വോളിയം മൂലകങ്ങളുടെ എണ്ണം ഉപരിതല വലതുവശത്തുള്ള മൂലകങ്ങളേക്കാൾ വളരെ വലുതായിത്തീരുമെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും ഒരു വിസ്തീർണ്ണം വളരുന്ന ഉപരിതല വിസ്തീർണ്ണം വോളിയം വലത്തേതിനേക്കാൾ ചെറുതായി തുടരുന്നു അതിനാൽ ഒരു ഗോളത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് നമുക്ക് നോക്കാം ഒരു ഗോളത്തിന്റെ അനുപാതം എന്താണ് അതെ ആനുപാതികമായി ഉപരിതല വിസ്തീർണ്ണം എന്തിനു ആനുപാതികമാണ് വിദ്യാർത്ഥിവർഗത്തിന് അതെ വർഗത്തിന് അതിനാൽ r വർദ്ധിക്കുമ്പോൾ ഞാൻ വലുതും വലുതുമായ ഒരു വസ്തുവിലേക്ക് പോകുമ്പോൾ സംഖ്യ വലുതായിക്കൊണ്ടിരിക്കുന്ന വോള്യം വലുതായിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഇത് ചെയ്യുന്നതിനുള്ള ചെലവ് കൂടുതൽ കൂടുതൽ ആയിത്തീരും കാരണം ഇപ്പോൾ ആ അളവ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ക്യൂബുകൾ ഉപരിതല വിസ്തീർണ്ണത്തേക്കാൾ വളരെ ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ധാരാളം കണക്കുകൂട്ടൽ സമയം ശരിയായി സംരക്ഷിക്കാൻ അവ ഞങ്ങളെ സഹായിക്കുന്നു ദിവസാവസാനം നിങ്ങൾക്ക് വളരെ നല്ല രീതി ഉണ്ടായിരിക്കാം എന്നാൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കാത്ത ന്യായമായ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പരിഹാരം വേണം 1 മാസത്തിനുശേഷം നിങ്ങൾ കോഡിംഗ് തെറ്റ് കണ്ടെത്തി അതിനാൽ നമുക്ക് വേണ്ടത് അതല്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ സമഗ്ര സമവാക്യ രീതികൾ ഉപയോഗിക്കുന്നത് ശരി അതിനാൽ ഈ കോഴ്സിലെ നാല് വ്യത്യസ്ത രീതികളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും കൂടാതെ നിങ്ങൾക്ക് ഈ നാല് കാര്യങ്ങളും പരിചിതമായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മികച്ച പ്രശ്നം തിരഞ്ഞെടുക്കാം ഈ കോഴ്സിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന മൂന്ന് രീതികളാണ് ഇവ അപ്പോൾ എന്താണ് IEM അതിന്റെ സമഗ്ര സമവാക്യ രീതികൾ അതിനാൽ സമഗ്ര സമവാക്യ രീതികൾ വ്യക്തമായും അവ അവിഭാജ്യ രീതികളാണെന്നും സാധാരണയായി ആവൃത്തി ഡൊമെയ്ൻ രൂപപ്പെടുത്തിയതാണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ FEM ലേക്ക് വരിക FEM എന്താണ് വിദ്യാർത്ഥി പരിമിതമായ ഘടകം പരിമിതമായ ഘടകം അതെ അതിനാൽ ഇത് പരിമിതമായ ഘടകമാണ് എന്തെങ്കിലും ഊഹങ്ങൾ ഉണ്ടോ സമയമോ ആവൃത്തിയോ നിങ്ങളുമായി പരിചയമുള്ളവർ യഥാർത്ഥത്തിൽ വീണ്ടും ഫ്രീക്വൻസി ഡൊമെയ്ൻ ആണ് അതിനാൽ ഇത് ഫ്രീക്വൻസി ഡൊമെയ്നാണ് ഇത് ഒരു ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ അവിഭാജ്യമാണ് കുറഞ്ഞത് TA കൾക്ക് ഉത്തരം നൽകാൻ കഴിയണം ഡിഫറൻഷ്യൽ അത് ഡിഫറൻഷ്യൽ രൂപത്തിലാണ് ഒടുവിൽ ഞങ്ങൾക്ക് FDTD ഉള്ളതിനാൽ അത് പരിമിതമായ വ്യത്യാസ സമയ ഡൊമെയ്നാണ് അടിസ്ഥാനപരമായി ഈ ആശയം പരിമിതമായ വ്യത്യാസങ്ങൾ ശരിയായി ഉപയോഗിക്കുന്നു അതിനാൽ ഈ വാക്ക് മിക്കവാറും അത് നൽകുന്നതുപോലെ ഇത് സമയ ഡൊമെയ്നിലും ഡിഫറൻഷ്യൽ രൂപത്തിലും ആയിരിക്കും അതിനാൽ നിലവിലുള്ള പ്രശ്നത്തെ ആശ്രയിച്ച് ഒന്നോ മറ്റോ ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ കമ്പ്യൂട്ടറ്റേഷണൽ ഇലക്ട്രോമാഗ്നെറ്റിക്സ് യഥാർത്ഥത്തിൽ എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവുന്നിടത്ത് അത് നമ്മെ എത്തിക്കുന്നു നിങ്ങൾക്ക് സിമുലേഷൻ ഫലങ്ങൾ കാണിക്കുന്നതിനായി കുറച്ച് ലളിതമായ ചിത്രങ്ങളുടെ സമവാക്യങ്ങൾ ഞാൻ ഇവിടെ നൽകിയിരിക്കുന്നു ക്രെഡിറ്റ് പേജ് ഇവിടെ നിന്ന് പോയി ഇവ CST മൈക്രോവേവ് HFSS തുടങ്ങിയ വാണിജ്യ സോഫ്റ്റ്വെയറുകളിൽ നിന്നാണ് എടുത്തത് ഉദാഹരണത്തിന് ഇവിടെ ആദ്യം ഇത് എന്താണെന്ന് ആർക്കെങ്കിലും എന്നോട് പറയാൻ കഴിയും ഈ ഘടന ഇവിടെയാണോ ഇത് ഒരു ഹോൺ ആന്റിനയാണ് ഒരു ഹോൺ ആന്റിനയിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന വൈദ്യുതകാന്തിക മണ്ഡലം എങ്ങനെയാണ് ഇത് എങ്ങനെ കാണപ്പെടുന്നു എന്നതാണ് ഇതിൽ നിന്ന് പുറത്തുവരുന്നത് ഇപ്പോൾ ഈ ഫീൽഡ് ശരിയാണെന്ന് കാണുന്നതിന് നടത്തിയ ഒരു അനുകരണമാണിത് അതിനാൽ ഇപ്പോൾ ഹോൺ ആന്റിന അറിയപ്പെടുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രത്യേക ആപ്ലിക്കേഷനായി നിങ്ങൾ മറ്റെന്തെങ്കിലും ആന്റിന നിർമ്മിക്കുമെന്ന് നാളെ പറയാം കൂടാതെ ഫീൽഡ് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഫീൽഡ് എങ്ങനെ കാണപ്പെടുന്നു എന്നതിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകും കാരണം നിങ്ങൾക്ക് ഒരു ആശയവിനിമയ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ നിന്ന് ആശയവിനിമയം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ കാര്യം ഞങ്ങളോട് പറയട്ടെ ഒരു ഫീൽഡ് ഒരു വശത്ത് ചെവിക്കാരനിലേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അതിനാൽ ഇവിടെയുള്ള ഈ വലിയ ബീം ഒരു ദിശയിൽ മാത്രമല്ല മറ്റൊരു ദിശയിലുമാണെന്ന് എനിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്കത് എങ്ങനെ അറിയാനാകും നിങ്ങൾ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ സംഖ്യാപരമായി പരിഹരിക്കുകയും ഇത് ശരിയാക്കുകയും വേണം അതിനാൽ ഇത് ഒരു ആന്റിന പാറ്റേണിന്റെ ഉദാഹരണമാണ് സാങ്കേതികവിദ്യയിൽ ഈ ദിവസങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു രസകരമായ ഉദാഹരണം ഇതാ അതിനാൽ ഇത് നിരവധി നിരവധി ആന്റിനകളുടെ ഒരു ശേഖരമാണ് അതിനെ ആന്റിന അറേ ശരി എന്ന് വിളിക്കുന്നു 5G യിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താൽപ്പര്യമുള്ള നിങ്ങളിൽ ആരെങ്കിലും ആന്റിന അറേകൾ ഉപയോഗിക്കും ഒരു ആന്റിനയ്ക്ക് പകരം MIMO രൂപീകരിക്കുന്ന ബീം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആന്റിനകളുടെ ഒരു നിരയും ഇതെല്ലാം ഉണ്ടാകും നിങ്ങൾ വീണ്ടും എങ്ങനെയാണ് ഇതേ പ്രശ്നം അറിയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു ബീം അയയ്ക്കണം പക്ഷേ അതല്ല എല്ലാം ആന്റിന അറേയിലെ റേഡിയേഷൻ പാറ്റേൺ കണക്കാക്കുക അതിനാൽ നിങ്ങൾ CEM ടെക്നിക്കുകൾ ഉപയോഗിക്കും ഉദാഹരണത്തിന് ബയോളജിക്കൽ ടിഷ്യു എന്ന് പറയാൻ സെൽ ഫോൺ റേഡിയേഷൻ കേടുപാടുകൾ ആണ് നമ്മൾ കേൾക്കുന്നത് അത് ശരിയാണോ ശരിയല്ല അത് പൂർണ്ണമായും വ്യക്തമല്ല പക്ഷേ ശാസ്ത്രീയമായി പഠിക്കാനുള്ള ഒരു മാർഗ്ഗമെങ്കിലും മനുഷ്യകോശത്തിന്റെ ഒരു മാതൃക നമുക്ക് പറയുക തുടർന്ന് ഒരു മൊബൈൽ ഫോൺ വികിരണം അനുകരിക്കുക തുടർന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പരമാവധി സൃഷ്ടിച്ച ഫീൽഡ് എന്താണ് ശാസ്ത്രീയമായി നിങ്ങൾക്ക് ഇത്രയും സമയം ഉപയോഗിച്ചാൽ വളരെയധികം ഫീൽഡ് സൃഷ്ടിക്കപ്പെടുമെന്ന് നോക്കാം അതിനാൽ ടിഷ്യു കേടുപാടുകൾ സംഭവിച്ചാലും ഇല്ലെങ്കിലും ഇത് വളരെയധികം സൃഷ്ടിക്കപ്പെടും അത് ചെയ്യുന്നതിനുള്ള ഒരു ശാസ്ത്രീയ മാർഗമാണിത് അതിനാൽ ഇത് ഗവേഷണത്തിന്റെ വളരെ സജീവമായ മേഖലയാണ് ധാരാളം സെൽ ഫോൺ കമ്പനികൾ അതുകൊണ്ടാണ് കമ്പ്യൂട്ടേഷണൽ ഇഎം ആളുകളെ നിയമിക്കുന്നത് കാരണം അവർ ഒരു ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള വികിരണ വസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്നുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തണം പിന്നീട് വലിയ അളവിലുള്ള സൈനിക പ്രയോഗങ്ങൾ ഉണ്ട് 60 കളിൽ കണക്കുകൂട്ടൽ ഇഎം ആരംഭിച്ചപ്പോൾ ഒരു പ്രധാന ചാലകശക്തി സൈനിക പ്രയോഗങ്ങളായിരുന്നു നിങ്ങൾക്ക് ഒരു സ്റ്റെൽത്ത് വിമാനം നിർമ്മിക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ അതാണ് ലക്ഷ്യമെന്ന് അറിയാമെങ്കിൽ പക്ഷേ അത് കണ്ടെത്താനാകില്ലെന്ന് ഞാൻ എങ്ങനെ ഉറപ്പാക്കും റഡാർ ക്രോസ് സെക്ഷൻ കുറവോ കൂടുതലോ ആണെന്ന് ഞാൻ അനുകരിച്ച് കാണിക്കുന്നു അതിനാൽ ഈ ലളിതമായ ഉദാഹരണത്തിൽ അവർ ചെയ്തത് അവർ ഒരു വിമാനം എടുത്ത് ഒന്നുകിൽ കാർബൺ ഫൈബർ അല്ലെങ്കിൽ മെറ്റാലിക് ഫ്രെയിം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ സിമുലേഷൻ ഉപരിതലത്തിലെ വൈദ്യുത മണ്ഡലങ്ങൾ കാണിക്കുന്നു അവ വ്യത്യസ്തമാണ് റഡാർ ക്രോസ് സെക്ഷൻ വ്യത്യസ്തമായിരിക്കും അതിനാൽ ഇത് വിമാനത്തിന് ഉപയോഗിക്കാം അത്തരം മറ്റേതെങ്കിലും പ്ലേ മിസൈലുകൾ കപ്പലുകൾക്ക് അറിയണം റഡാർ ക്രോസ് സെക്ഷൻ എന്താണ് അതിനാൽ ഇത് ആർസിഎസ് കണക്കുകൂട്ടലുകൾ ശരിയാണ് ഇവ ചില ആപ്ലിക്കേഷനുകൾ മാത്രമാണ് നിങ്ങൾ ആർസിഎസിന്റെ ആപ്ലിക്കേഷനുകൾ നോക്കുമ്പോൾ കോഴ്സിന്റെ അവസാനത്തിൽ ഞങ്ങൾ കൂടുതൽ നോക്കും